പ്രിയപ്പെട്ട പങ്കാളികളെ മൂന്നാം ആഴ്ചയിലെ നാലാമത്തെ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ വ്യത്യസ്ത ഫിംഗർ ചലനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് വ്യത്യസ്ത കൈ സ്ഥാനങ്ങളെക്കുറിച്ചും ആംഗ്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇതിനകം പഠിച്ചു പക്ഷേ കൈകൾ മാത്രമല്ല വിരലുകൾ പ്രത്യേകിച്ചും നമ്മുടെ തള്ളവിരൽ കൈപ്പത്തി എന്നിവ പോലും സ്വതന്ത്രമായി ചില വികാരങ്ങളെയും മാനസികാവസ്ഥകളെയും സൂചിപ്പിക്കുന്നതാണെന്നും നമ്മുടെ ഇടപെടലുകളിൽ ഇവയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടെന്നും നമുക്ക് കാണാൻ കഴിയും വാസ്തവത്തിൽ വാട്ട് എവരിബഡി ഈസ് സേയിങ്' അഭിപ്രായപ്പെട്ടത് ഭാഷ പഠിച്ചിട്ടും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ മസ്തിഷ്കം യഥാർത്ഥത്തിൽ നമ്മുടെ വികാരങ്ങളും ചിന്തകളും നമ്മുടെ കൈകളുടെ സഹായത്തോടെയാണ് ആശയവിനിമയം നടത്തുന്നത് എന്നാണ് ഏതൊരു ആശയവിനിമയത്തിലും കൈയുടെയും വിരലുകളുടെയും ചലനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം അനുപാതരഹിതമാണെന്ന് അദ്ദേഹം കരുതുന്നു നമ്മുടെ തംബ്സ് എന്നിരുന്നാലും ഈ ആംഗ്യത്തിന് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് തംബ്സ് പൊതുവെ നമ്മുടെ ആധിപത്യബോധവും ഉറച്ച നിലയും പ്രകടിപ്പിക്കുന്നു പക്ഷേ ചിലപ്പോൾ ആക്രമണാത്മകവും അപമാനകരവുമായ മനോഭാവവും കാണിക്കുന്നു തംബ്സ് ആംഗ്യങ്ങളാണെന്നും അവ എല്ലായ്പ്പോഴും ഒരു ക്ലസ്റ്ററിന്റെ ഭാഗമാണെന്നും അവ ഒരിക്കലും സ്വതന്ത്രമായി മനസ്സിലാക്കപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മിക്ക സംസ്കാരങ്ങളിലും ആംഗ്യത്തിന്റെ തംബ്സ്സിൻറെ ആംഗ്യം അർത്ഥമാക്കുന്നത് ജോലി നന്നായി പൂർത്തിയാക്കി എന്നതാണ് എന്നിരുന്നാലും ഈ പ്രത്യേക ആംഗ്യം സ്വീകരിക്കുന്ന രീതിയും വ്യാഖ്യാനങ്ങളും പ്രാധാന്യവും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്തമാണ് ജപ്പാനിൽ ഇതിൻറെ വ്യാഖ്യാനം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഒരാൾ തംബ്സ് ഉയർത്തി പിടിക്കുന്നതിന് ഒപ്പം മുഷ്ടിയും ഉയർത്തിപ്പിടിക്കണം എന്നാൽ മാത്രമേ അർഥം പൂർത്തിയാകുകയുള്ളൂ മിക്ക രാജ്യങ്ങളിലും മുഷ്ടി ഒരിക്കലും പൂർണ്ണമായി മുറുകെ പിടിക്കാറില്ല എല്ലാം നല്ലതാണെന്ന് സൂചിപ്പിക്കാൻ ജാപ്പനീസ് ഉപയോഗിച്ച ഇതേ ആംഗ്യത്തെ അറേബ്യൻ രാജ്യങ്ങളിൽ അപമാനകരമായ ആംഗ്യമായി കണക്കാക്കാം ഓസ്ട്രേലിയയിലും ഉപയോഗിക്കുന്നു പക്ഷേ ഇത് ഒന്നാമത്തെയോ അഞ്ചാമത്തെയോ എന്നത് ഒരു കുട്ടി എവിടെയാണോ എണ്ണാൻ പഠിക്കുന്നത് അവിടുത്തെ സാംസ്കാരിക വ്യതിയാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കൈവിരലുകൾ സാധാരണയായി മുഷ്ടി ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുഷ്ടിയിലെ തംബ്സ് ഒരു ഉത്കണ്ഠയെ സൂചിപ്പിക്കുന്നു വിരലുകൾക്കുള്ളിൽ ഒരു തള്ളവിരൽ അകത്തേക്ക് ഇരിക്കുമ്പോൾ ഉത്കണ്ഠയുള്ള സാഹചര്യത്തിൽ സാന്ത്വനം കണ്ടെത്താനുള്ള ശ്രമമായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നു ചർച്ചകളിലെയും വിൽപ്പനയിലെയും ഡയലോഗുകൾക്കിടയിൽ വളരെ വ്യക്തമാണ് 1946 സെപ്റ്റംബർ 19 ന് സൂറിച്ചിൽ സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ അദ്ദേഹത്തിൻറെ അടഞ്ഞ കൈകളും നീണ്ടുനിൽക്കുന്ന വിരലും മുഷ്ടിയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനമാനവും നിശ്ചയവും ആണ് സൂചിപ്പിക്കുന്നത് കോട്ട് പോക്കറ്റിൽ നിന്ന് പുറത്തേക്കു നിൽക്കുന്ന തംബ്സ് വളരെ സാധാരണമായ മറ്റൊരു ആംഗ്യമാണ് ഇത് ഞങ്ങൾ പ്രൊഫഷണലിലും സെമി പ്രൊഫഷണൽ ഒത്തുചേരലുകളിലും പതിവായി കാണുന്നു ആജ്ഞാപിക്കാനുള്ള ഒരു സ്ഥാനത്താണെന്നും അവർ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്നും കരുതുന്ന ആളുകൾ ഇത് സാധാരണയായി പ്രദർശിപ്പിക്കും ചിലപ്പോൾ ഈ ആംഗ്യം കാണിക്കാൻ ആളുകൾ അവരുടെ പിന്നിലെ പോക്കറ്റുകൾ ഉപയോഗിക്കുന്നു ആധിപത്യ മനോഭാവം മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ ആണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു ഔദ്യോഗിക അന്തരീക്ഷത്തിൽ പോക്കറ്റിൽ നിന്ന് നീണ്ടുനിൽക്കുന്ന ഈ തരം തംബ്സ് ഉപയോഗിച്ച് ബോസ് ചുറ്റിക്കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും മുതലാളിയുടെ അഭാവത്തിൽ അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി ചിലപ്പോൾ സമാന ആംഗ്യം കാണിച്ചേക്കാം എന്നിരുന്നാലും ഒരിക്കലും ബോസിന്റെ സാന്നിധ്യത്തിൽ കാണിക്കില്ല ചാൾസ് രാജകുമാരന്റെ പതിവ് ആംഗ്യങ്ങളിൽ ഒന്നാണിതെന്ന് പീസ് അഭിപ്രായപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ മികച്ച സ്ഥാനത്തെയും കാര്യങ്ങളുടെ നിയന്ത്രണമുണ്ടെന്ന മനോഭാവത്തെയും സൂചിപ്പിക്കുന്നു പലപ്പോഴും ഈ ആംഗ്യത്തെ മനപൂർവ്വം ട്രാംപുകളിലും ചെറിയ വില്ലന്മാരിലും കാണുന്നു ഈ ആളുകളിൽ മറ്റ് ആളുകൾക്ക് മുന്നിൽ അവരുടെ പ്രാധാന്യം അടിവരയിടുന്നതിനുള്ള മനപൂർവ്വമായ ഒരു പ്രസ്താവന ആയി ആണ് ഈ ആംഗ്യത്തെ മനസ്സിലാക്കുന്നത് മറ്റൊരു സാധാരണ പെരുവിരൽ ആംഗ്യമാണ് കൈകൾ മടക്കി വയ്ക്കുന്നു പക്ഷേ പെരുവിരൽ മുകളിലേക്ക് ചൂണ്ടി ഇരിക്കുന്നത് ഇത് ഡബിൾ സിഗ്നലായി വ്യാഖ്യാനിക്കപ്പെടുന്നു മടക്കിവെച്ച കൈകളുടെ സഹായത്തോടെ പ്രതിരോധവും നിഷേധാത്മക മനോഭാവവും ഇത് കാണിക്കുന്നു എന്നിരുന്നാലും ഉയർന്ന മനോഭാവവും ഇതിലൂടെ തംബ്സ് വെളിപ്പെടുത്തുന്നു തനിക്ക് ഒരു മേധാവിത്വ മനോഭാവം ലഭിച്ചുവെന്ന് സൂചിപ്പിക്കാൻ വ്യക്തി സാധാരണയായി ഈ ജെസ്റ്റർ ഉപയോഗിക്കുന്നു എന്നാൽ അതേ സമയം അയാൾക്ക് പ്രതിരോധ മനോഭാവവും തോന്നുന്നു അല്ലെങ്കിൽ താനും മറ്റുള്ളവരും തമ്മിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ ഒരു വ്യക്തി ഈ നിലപാട് സ്വീകരിച്ച് ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി സാധാരണയായി സംസാരിക്കുന്നതിനിടയിൽ പെരുവിരൽ ഉപയോഗിച്ച് വിരലുകളെ വളച്ചൊടിക്കുന്നു ഒരു വ്യക്തി ഈ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി തന്റെ കാലിലെ കാൽവിരലുകൾ വളയുക്കുന്നു ചൂണ്ടുവിരലിനും വിരൽത്തുമ്പിനും നേരെ തള്ളവിരൽ തടവുന്നത് സാധാരണയായി പണത്തിന്റെ പ്രതീക്ഷയുടെ ആംഗ്യമായി ഉപയോഗിക്കുന്നു ആരെങ്കിലും പെരുവിരലിനും വിരൽത്തുമ്പിനും ഇടയിൽ ഒരു നാണയം തടവുന്നത് പോലെ എന്നാൽ ഇത് വളരെ നെഗറ്റീവ് ആംഗ്യമാണ് കാരണം ഇത് പണത്തെ അതിന്റെ എല്ലാ നെഗറ്റീവ് അസോസിയേഷനുകളുമായും സൂചിപ്പിക്കുന്നു അതിനാൽ ഈ ആംഗ്യവുമായി പരസ്യമായി ബന്ധപ്പെടാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല മറ്റൊരു സാധാരണ ആംഗ്യം പ്രീസിഷൻ ഗ്രിപ്പും അതിന്റെ വ്യതിയാനങ്ങളും നിങ്ങളുടെ തള്ളവിരലിനും വിരൽത്തുമ്പിനും ഇടയിൽ അതിലോലമായതും പ്രധാനപ്പെട്ടതുമായ എന്തെങ്കിലും നിങ്ങൾ കൈവശം വച്ചിരിക്കുന്നതുപോലെ നിങ്ങൾ ഒരു പേന അല്ലെങ്കിൽ സൂചി അല്ലെങ്കിൽ മൃദുവായ പട്ട് കഷണം ആകാം പിടിച്ചിരിക്കുന്നത് സംഭാഷണത്തിനിടയിൽ പ്രത്യേകിച്ചും ഈ പ്രീസിഷൻ ഗ്രിപ്പിൽ കൈപ്പത്തി നമ്മിലേക്ക് അഭിമുഖീകരിക്കുമ്പോൾ കൃത്യത സൂക്ഷ്മത വ്യക്തി സംസാരിക്കുന്ന സാഹചര്യത്തിന്റെ സൂക്ഷ്മത എന്നിവ സൂചിപ്പിക്കുന്നു സാധാരണഗതിയിൽ പ്രേക്ഷകരും ശ്രോതാക്കളും ഈ ആംഗ്യം ഉടനടി മനസ്സിലാക്കുന്നുവെന്നും അതിനാൽ ഈ പ്രീസിഷൻ ഗ്രിപ്പിലെ ചെറിയ വ്യതിയാനം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രിയപ്പെട്ട ആംഗ്യമായി മാറിയെന്നും നമുക്ക് മനസ്സിലാകും അതിനാൽ ഇത് വിപരീതദിശയിലുള്ള 'ശരി' ആംഗ്യമാണ് കൈപ്പത്തി പുറത്തേക്ക് അഭിമുഖീകരിക്കുകയും വിരലുകൾ വൃത്താകൃതിയിലുള്ളതുമാണ് വിരലുകളുമായി ബന്ധപ്പെട്ട പിടിയിലെ മൃദുത്വം കാരണം ഇത് ഭയപ്പെടുത്തുന്നത് ഒഴിവാക്കുന്നു അതിനാൽ ഇത് ചിന്തനീയവും ലക്ഷ്യബോധമുള്ളതും കൃത്യവുമായത് എന്നതിനെ സൂചിപ്പിക്കുന്ന ആംഗ്യമായി കണക്കാക്കപ്പെടുന്നു പിഞ്ചിന്റെ ചെറിയ വ്യതിയാനങ്ങൾ സാഹചര്യത്തിന്റെ ലാളിത്യവും വാദഗതിയുടെ പ്രാധാന്യവും അടിവരയിടാൻ സഹായിക്കുന്നു അതേസമയം മൃദുവായ വിരലുകളിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും അഹങ്കാരപരമായ ആംഗ്യമായി കണക്കാക്കപ്പെടുന്നില്ല പെരുവിരലും മറ്റ് വിരലുകളും ഉപയോഗിച്ച് കാണിക്കുന്ന 'ശരി' ചിഹ്നമാണ് മറ്റൊരു വ്യത്യാസം വ്യത്യസ്ത അർത്ഥങ്ങളും സാംസ്കാരിക ബന്ധങ്ങളും ഉള്ള ഒരു ആംഗ്യമാണിത് യുഎസ്എയിൽ എല്ലാം ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്നു ജാപ്പനീസ് സംസ്കാരത്തിൽ ഇത് പണം എന്നാണ് അർത്ഥമാക്കുന്നത് ഫ്രാൻസിൽ ഇത് പൂജ്യം എന്നാണ് അർത്ഥമാക്കുന്നത് സ്കാൻഡിനേവിയയിലും മധ്യയൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും ഇത് ഒരു മോശം ആംഗ്യമായി കണക്കാക്കപ്പെടുന്നു ചില രാജ്യങ്ങളിൽ ഇത് ഒരു റൂട്ട് ആംഗ്യമായി കണക്കാക്കപ്പെടുന്നു റഷ്യ ബ്രസീൽ തുർക്കി മെഡിറ്ററേനിയൻ സംസ്കാരങ്ങളിൽ ഇത് ഒരു അശ്ലീല ആംഗ്യമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ കൈ ചലനങ്ങളും വിരൽ ആംഗ്യങ്ങളും ഏതാണ്ട് സാർവത്രികമാണെങ്കിലും ഈ പൊതു ആംഗ്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സാംസ്കാരികമാണെന്ന് പറയാൻ കഴിയും ഈ രസകരമായ വീഡിയോയിൽ കൈയുടെയും പെരുവിരലിന്റെയും ചലനങ്ങളുടെ അർത്ഥങ്ങളുടെ വിശദീകരണം നൽകിയിരിക്കുന്നു കൈ ചലനാത്മകത വളരെയധികം പറയും പോലെ പെരുവിരൽത്തുമ്പിൽ വിരൽ കൊണ്ട് സ്പർശിച്ച ഇരിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടാൽ ഇത് അയാളുടെ അകത്ത് സംഘർഷം നടക്കുന്നതിന്റെ ഒരു സൂചകമാണ് അത് ഒരു ഇച്ഛാശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഇച്ഛാശക്തി ഇതുപോലെ മൂടിവയ്ക്കുമ്പോൾ അത് വ്യക്തിക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നുവെന്നതിന്റെ ഒരു സൂചകമാകാം അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് വ്യക്തി ഭയപ്പെടാം അതിനാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സൌമ്യനും മൃദുവുമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇതിലൂടെ അവർക്ക് തങ്ങളെക്കുറിച്ച് സ്വയം നല്ലതാണെന്ന് തോന്നും താരതമ്യേന സാധാരണമായിട്ടുള്ള ഒരു പ്രത്യേക ആംഗ്യത്തെ ഫിസ്റ്റ് ബമ്പ് രാജ്യത്തെ പിടിച്ചുലക്കുന്നു എന്നായിരുന്നു അതിനാൽ ഫിസ്റ്റ് ബമ്പ് ആദ്യകാല ബമ്പറാണെന്നും അവർ കണ്ടെത്തി ഈ മീഡിയ ക്ലിപ്പ് ഫിസ്റ്റ് ബമ്പ്കളുടെ ചില ഉദാഹരണങ്ങൾ കാണിക്കുന്നു ഇത് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കൈ ചലനങ്ങളെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വീക്ഷണമാണ് പ്രൊഫഷണൽ ക്രമീകരണങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു സാധാരണ വിരൽ ചലനം ആണ് 'പോയിന്റർ' ചില ദിശകളിലേക്ക് വിരൽ ചൂണ്ടുന്നു തുടക്കത്തിൽ ഈ പ്രത്യേക വിരൽ ചലനത്തിന്റെ ഉത്ഭവം നിരുപദ്രവകരമാണെന്ന് തോന്നാം ആരെങ്കിലും ദൂരെയുള്ള ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ എന്നിരുന്നാലും പ്രൊഫഷണൽ ആശയവിനിമയത്തിന്റെ സിറ്റിംഗുകളിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് അപലപനീയമായി കണക്കാക്കപ്പെടുന്നു അതിനർത്ഥം നമ്മൾ മറ്റൊരാളെ അല്ലെങ്കിൽ അവർക്കു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കുറ്റപ്പെടുത്തുന്നുവെന്നാണ് ചിലപ്പോഴൊക്കെ അസ്വസ്ഥരായി അല്ലെങ്കിൽ അമിതമായ കോപം അനുഭവിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ എത്രമാത്രം മോശമായി ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്നതിന് പലപ്പോഴും വിരൽ ചൂണ്ടുന്നു എന്നിരുന്നാലും സാധാരണയായി ഇത് ഒഴിവാക്കണം ചില സന്ദർഭങ്ങളിൽ ഇത് ഒരു അധികാരബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് വിരൽ ചൂണ്ടുന്നയാളെ ഏതെങ്കിലും അപമാനബോധവുമായി ബന്ധപ്പെടുത്താതെ വിരലുകൊണ്ട് സൂചിപ്പിക്കാൻ പോയിൻറ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഇത് എന്നിരുന്നാലും പ്രത്യേകിച്ച് സഹപ്രവർത്തകർക്കിടയിൽ ഇത് താഴ്ത്തി സംസാരിക്കാനുള്ള മനപൂർവ്വം അപമാനിക്കാനുള്ള ഒരു മാർഗമായി കാണുന്നു ഇത് ഏറ്റുമുട്ടൽ പ്രകൃതം ഉള്ളതും അങ്ങേയറ്റം കുറ്റകരവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ വിരൽ ചൂണ്ടുന്നത് ഒഴിവാക്കണം എന്നിരുന്നാലും ചില പരിമിതികൾ കാരണം നമുക്ക് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക വിരൽ ഉപയോഗിച്ച് ചൂണ്ടിക്കാണിക്കുന്നതിനുപകരം നിങ്ങളുടെ കൈ പൂർണ്ണമായും ഉപയോഗിച്ച് ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് ഉചിതമായിരിക്കും മറുവശത്ത് നിങ്ങളുടെ വിരൽ വായുവിൽ ഒരു പോയിന്ററായി ഉപയോഗിക്കുന്നത് നിങ്ങൾ വായുവിൽ എന്തെങ്കിലും എഴുതുന്നതുപോലെ ഉപയോഗിക്കുന്നത് ആത്മവിശ്വാസത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു സാമൂഹ്യ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും മതപ്രബോധകരെയും ഈ പ്രത്യേക ആംഗ്യം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതായി നാം പലപ്പോഴും കാണുന്നു പൊതു സംഭാഷണ സാഹചര്യങ്ങളിൽ പാം ക്ലോസ്ഡ് ഫിംഗർ പോയിൻറഡ് ജെസ്റ്റർ ആംഗ്യവും നമുക്ക് കാണാൻ ആകും ഇതിൽ കൈപ്പത്തി അടച്ചിരിക്കുന്നു വിരലുകൾ ചൂണ്ടുന്നു പക്ഷേ മുഷ്ടി ഉണ്ട് ഇത് സാധാരണയായി ഒരു പ്രതീകാത്മക ക്ലബ് പോലെയാണ് ശ്രോതാക്കളെ ആലങ്കാരികമായി തല്ലാൻ സ്പീക്കർ ഉപയോഗിക്കുന്നു ഇത് ലക്ഷ്യമിടുന്ന ആളുകൾ വിഡ്ഢിത്തവും ദേഷ്യവും അനുഭവിക്കുന്നു ഇതിനു കാരണം മനപൂർവ്വം ഒരു കീഴ്വഴക്കമുണ്ടാക്കുകയും ആളുകൾ അത് മുതലെടുക്കുകയും ചെയ്യുന്നുവെന്ന് അവർക്ക് തോന്നുന്നതിനാൽ ആണ് മറ്റൊരു വ്യതിയാനത്തെ ഫിംഗർ ജാബ് എന്നറിയപ്പെടുന്നു ഇത് മുന്നോട്ട് കുതിക്കുന്ന ഒരു ചലനത്തിനു സമാനമാണ് ഇത് പലപ്പോഴും വളരെ കഠിനമാണ് ഇതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വികാരം വ്യക്തിപരമായ ആക്രമണത്തിന്റെ വികാരമാണ് ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നതുപോലെ എന്നിരുന്നാലും ഒരു പ്രത്യേക ആശയം എടുത്തുകാണിക്കുന്നതിനായി അവതരണത്തിന്റെ ഭാഗമായി ഒരാളുടെ പ്രസംഗത്തിന്റെ ഭാഗമായി ആരെങ്കിലും അത് മനപൂർവ്വം ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ വിരലുകളുടെ നേരിട്ടുള്ള ജാബ് ചലനത്തിനു പകരം വിരലുകൾ മടക്കിയതിനു ശേഷം ഉപയോഗിക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും നമ്മുടെ വിരലുകളുടെ ചലനങ്ങൾ അക്ഷമയോ നെർവസ് ഡ്രമ്മിംഗുമായോ പരിണമിച്ചു ഭൌതിക ലോകം പര്യവേക്ഷണം ചെയ്യാൻ അവ ഉപയോഗിക്കുന്നു അതിനാൽ നമ്മുക്ക് ഉത്കണ്ഠയോ അസ്വസ്ഥതയോ തോന്നുമ്പോഴെല്ലാം ഈ വിരൽത്തുമ്പുകൾ എല്ലായ്പ്പോഴും അനുകരിക്കപ്പെടുന്നു ഒരു ഉപരിതലത്തിൽ സ്പർശിക്കാനും ചില ഉറപ്പ് നേടാനും സ്വയം ആശ്വസിപ്പിക്കാനും വളരെ അബോധാവസ്ഥയിൽ സമയം ചെലവഴിക്കാനും നമ്മൾ അവ ഉപയോഗിക്കുന്നു അതിനാൽ വിരലുകൾ ഡ്രമ്മുചെയ്യുകയോ ടാപ്പുചെയ്യുകയോ ചെയ്യുന്നത് നമ്മുടെ നിരാശയെയും വിരസതയെയും ഉത്കണ്ഠയെയും സൂചിപ്പിക്കുന്നു ഈ അസോസിയേഷനുകളൊന്നും പോസിറ്റീവ് ആയിരിക്കില്ല അതേസമയം നമ്മുടെ വിരലുകൾ എന്തെങ്കിലും പ്രവർത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയും മറുവശത്ത് വിൽപ്പനക്കാർ ഇത് ഒരു തന്ത്രമായി ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു വിൽപ്പനക്കാരനെ കാണുമ്പോൾ അവർ നിങ്ങളുടെ വിരലുകൾ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും വളരെ നേരം വിരലുകൾ വെറുതെ വെക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു നല്ല വിൽപ്പനക്കാരനുമായി സംസാരിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ കൈകളിൽ നിസ്സാരവസ്തുകൾ തരും അതുവഴി നിങ്ങളുടെ കൈകൾ അവരുടെ നിയന്ത്രണത്തിൽ വയ്ക്കാനും അവർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രേരിപ്പിക്കുന്നു വിരലുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് ആംഗ്യമാണ് അതിനാൽ ഇത് എല്ലാ പ്രൊഫഷണൽ ക്രമീകരണങ്ങളിലും ഒഴിവാക്കണം അതുപോലെ നമ്മുടെ കൈയോ വിരലോ മുഖത്തിനു കുറുകെ കൊണ്ടുവരുമ്പോൾ ഇത് എല്ലായ്പ്പോഴും ഒരു നിഷേധാത്മകതയുടെ സൂചനയാണ് നമുക്കും മറ്റുള്ളവർക്കും ഇടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കാനുള്ള നമ്മുടെ ആഗ്രഹം കുറച്ച് സമയം തേടാനുള്ള ശ്രമം ഒരു പ്രത്യേക സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു ഇവിടെ ഡെസ്മണ്ട് മോറിസിന്റെ ഒരു ഗവേഷണത്തെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നുണകൾ കഴുത്തിലും മുഖത്തും ഇഴയടുപ്പമുണ്ടാക്കുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയത് അദ്ദേഹമാണ് പലപ്പോഴും ഈ ചൊറിച്ചിൽ അടക്കുന്നതിനായി കഴുത്തും മുഖവും തടവുകയോ മാന്തുകയോ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആളുകൾക്ക് എന്തിനെയെങ്കിലും കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടാകുമ്പോഴെല്ലാം അവർ കഴുത്തിൽ ചൊറിയുന്നു ചിലർ ഒരു ഷർട്ട് ധരിക്കുകയാണെങ്കിൽ ഒരു കോളർ പുളിന്റെ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും കഴുത്തിൽ ചൊറിച്ചിൽ തുടങ്ങിയവയും ഉണ്ടാകും ചിലപ്പോൾ ഇത് മറ്റ് ശരീര ഭാഷാ ആംഗ്യങ്ങളുമായി ബന്ധപ്പെടുത്താം പ്രത്യേകിച്ചും കണ്ണിന്റെ സമ്പർക്കം ഇല്ലായ്മ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട കണ്ണിന്റെ സമ്പർക്കം തുടങ്ങിയവ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്നും അതേ സമയം കോളർ പുൾ എന്നറിയപ്പെടുന്നതിൻറെ ഏതെങ്കിലും വ്യതിയാനം ഉപയോഗിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ വ്യക്തിയോട് അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞതെന്തും ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയോ പോയിന്റ് വ്യക്തമാക്കുകയോ ചെയ്യാൻ പറയുന്നത് ഒരു നല്ല തന്ത്രമായിരിക്കും ഇത് സ്പീക്കർ അതേ ആശയം ആവർത്തിക്കാൻ ഇടയാക്കുകയും ഒരുപക്ഷേ അത് സംഭാഷണത്തിൽ ചില വ്യക്തത വരുത്തുകയും ചെയ്യും ഒരു പ്രഭാഷണം നടത്തുമ്പോഴോ മറ്റേതെങ്കിലും ഔപചാരിക സാഹചര്യത്തിലോ ഇത്തരത്തിലുള്ള ഒരു ആംഗ്യം സ്പീക്കറുടെ പോസിറ്റിവിറ്റി കുറയ്ക്കുന്നു അതുപോലെ ഈ പ്രതിരോധ ആംഗ്യങ്ങളുടെ മറ്റൊരു വ്യതിയാനമാണ് കഴുത്തിലെ സ്ക്രാച്ച് എന്നത് ഇത് ചില അനിശ്ചിതത്വത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ഓ ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് ഒരാൾ പറയുന്നതിനെ സൂചിപ്പിക്കുന്നു ചില സമയങ്ങളിൽ ഒരു വ്യക്തി ഇതിന് വാക്കാൽ വിരുദ്ധമായിരിക്കാം ഒരു വ്യക്തി ഓ നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലായി എന്ന് പറഞ്ഞേക്കാം പക്ഷേ ആ സമയം അദ്ദേഹം കഴുത്ത് സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രസ്താവനയിൽ ആ വ്യക്തി സത്യസന്ധനല്ലെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ നമ്മുടെ വിരൽ ചലനങ്ങൾ വളരെ വെളിപ്പെടുത്തുന്നതാണ് ഉദാഹരണത്തിന് വായിൽ വിരലുകൾ വെക്കുന്നത് കടുത്ത സമ്മർദ്ദത്തിൽ വ്യക്തിയുടെ കുട്ടിക്കാലത്തെ സുരക്ഷയിലേക്ക് മടങ്ങിവരാനുള്ള സ്വയം കണ്ടെത്തുന്ന അബോധാവസ്ഥയിലുള്ള ശ്രമമാണ് എന്നിരുന്നാലും കൈകളും വായും ഉപയോഗിക്കുന്ന ആംഗ്യങ്ങൾ ചിലതരം വഞ്ചന ചിലതരം നുണ ചിലതരം ആഗ്രഹം സമയം കണ്ടെത്തുന്നതിനെയോ സാഹചര്യം ഒഴിവാക്കുന്നതിനോയോ സൂചിപ്പിക്കുന്നു പക്ഷേ വായിലെ വിരലുകൾ ഉറപ്പുനൽകുന്നതിൻറെ സൂചനയാണ് ഈ സംഭാഷണത്തിൽ മികച്ച തന്ത്രം ശാന്തനായി തുടരുകയും മറ്റൊരാൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുക എന്നതാണ് അതുപോലെ ചില ആംഗ്യങ്ങൾ സാർവത്രികമായി അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യങ്ങളിൽ മാത്രം കുറ്റകരമെന്ന് കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് ആദ്യത്തെ ചിഹ്നം സമൂഹങ്ങളിലെ ചില വിഭാഗങ്ങളിൽ പിശാചിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു രണ്ടാമത്തെ ആംഗ്യം ഇറ്റലിയിൽ കുറ്റകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു ചില ഗവേഷകർ സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരാളെ ജയിലിലേക്ക് വരെ എത്തിക്കാൻ കഴിയുന്ന കുറ്റവുമാണ് മൂന്നാമത്തെ ആംഗ്യം നിരപരാധിയും നിരുപദ്രവകരവുമായ ആംഗ്യമായി കണക്കാക്കപ്പെടുന്നു അതേസമയം മിക്ക സംസ്കാരങ്ങളിലും അങ്ങേയറ്റം കുറ്റകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഫിലിപ്പൈൻസിൽ ഇത് സമൂഹത്തിലെ നായ്ക്കൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഒരു ആംഗ്യമാണ് അതേസമയം വിരൽ ചലനങ്ങളിൽ മറ്റ് ചില പൊതുവായ വ്യതിയാനങ്ങളും ഉണ്ട് ക്രോസ്ഡ് വിരലുകൾ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നു കാരണം അവയ്ക്കു കുരിശിലേറ്റുന്ന ചിത്രവുമായി സാമ്യമുണ്ട് ആരെങ്കിലും വിരൽനഖങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവിറ്റി നിർദ്ദേശിക്കുന്നു തുടർന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും ഇത് വിരസതയോ താൽപ്പര്യമില്ലായ്മയോ ആത്മവിശ്വാസക്കുറവോ മുതലായവ സൂചിപ്പിക്കുന്നു എന്ന് വിരലുകൾ ഫ്ലറ്റർ ചെയ്താലും വിരലുകളുടെ ഡ്രമ്മിംഗും അനിശ്ചിതത്വത്തെ സൂചിപ്പിക്കുന്നു വിരലുകൾ ചലിപ്പിക്കുന്നത് വിരസതയെയും പിരിമുറുക്കത്തെയും സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ ആംഗ്യങ്ങൾ ഒരു ജോലിസ്ഥലത്ത് ഔപചാരിക ക്രമീകരണത്തിൽ ഒഴിവാക്കണം തുടർന്നുള്ള വീഡിയോയിൽ സാധാരണയായി കാണപ്പെടുന്ന വിരൽ ആംഗ്യങ്ങളുടെ ചില ചിത്രീകരണങ്ങളും അസോസിയേഷനുകളും നമുക്ക് നോക്കാം ഈ കൈ ആംഗ്യം സാധാരണയായി ഹാൻഡ് സൈൻ എന്നറിയപ്പെടുന്നു എന്തെങ്കിലും നല്ലതാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ ഇത് എസോട്ടെറിക് സർക്കിളുകളിൽ കൂടുതൽ മോശമായ ധാരണയിൽ പ്രചാരത്തിലുണ്ട് എന്താണ് എസോട്ടെറിക് ശരി എസോട്ടെറിക് ഏറ്റവും അടിസ്ഥാനവും പൊതുവായതുമായ അറിവാണ് ആർക്കും ആക്സസ് ചെയ്യാവുന്ന അടിസ്ഥാന വിവരങ്ങൾ മറുവശത്ത് അത് വ്യാപകമായി അറിയപ്പെടുന്നില്ല മാത്രമല്ല ഇത് മിക്കവാറും ഒരു മറഞ്ഞിരിക്കുന്ന ധാരണയുമാണ് എസോട്ടെറിക് പ്രതീകങ്ങളും അടയാളങ്ങളുമാണ് വരേണ്യവർഗം ഉപയോഗിക്കുന്നത് പരസ്പരം സന്ദേശങ്ങൾ നൽകാനും അവരുടെ അഫിലിയേഷനുകൾ ആളുകളെ അറിയിക്കാനും ഇത് അവരെ സഹായിക്കുന്നു പ്രതീകാത്മകതകളും അവ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയുമെങ്കിൽ അവരുടെ പൈശാചിക അജണ്ട നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ കൈ ചിഹ്നം 666 മറ്റുള്ളവരുമായി കൂറ് കാണിക്കുന്നതിനുള്ള ഒരു പൈശാചിക അടയാളമാണ് ഇവിടെ കാണുന്ന ഈ ചിഹ്നം സമാധാന ചിഹ്നം എന്നറിയപ്പെടുന്നു പക്ഷേ ചിലപ്പോൾ ആളുകൾ പറയുന്നത് വിജയത്തിന്റെ വി എന്നാണ് ഇത് സൈനിസവുമായി ബന്ധിപ്പിക്കുന്നു V എന്നതിനായുള്ള ഹീബ്രൂ അക്ഷരത്തിന്റെ അർത്ഥം ആണി എന്നാണ് സൈനിസത്തിന്റെ സാഹോദര്യത്തിനുള്ളിൽ ചിഹ്നത്തിന്റെ രഹസ്യ ശീർഷകങ്ങളിലൊന്നാണ് ആണി ഈ ചിഹ്നം നമ്മളെ അറിയിക്കുന്നത് ഇത് അവന്റെ പ്രിയപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് എന്നാണ് ഈ ചിഹ്നം പോലെ പരക്കെ അറിയപ്പെടുന്ന മറ്റൊരു ചിഹ്നമാണ് സമാധാന ചിഹ്നം പക്ഷേ ഇത് ശരിക്കും സമാധാനം എന്നല്ല അർത്ഥമാക്കുന്നത് കാരണം നിങ്ങൾ ഇവിടെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു തലകീഴായി തകർന്ന കുരിശാണ് അത് ഒരു കാക്കയുടെ കാൽ പോലെ കാണപ്പെടുന്നു ഇത് പ്രതീകാത്മകമാണ്